ഈ കോഴ്സിന്റെ അവസാന ആഴ്ച നമ്മൾ ചില മുൻകൂർ വിഷയങ്ങൾ പരിശോധിച്ചു അതിനാൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്ന് ആരംഭിക്കാം ഇതുവരെ നമ്മൾ നോക്കിക്കാണുന്ന പ്രശ്നങ്ങളുടെ സമയം പ്രധാനമായും ഒപ്റ്റിമൈസേഷൻ തരത്തിലുള്ള ജോലികളാണ് അതിനാൽ നമ്മൾ ഒരു ഗ്രാഫിലെ ഏറ്റവും ഹ്രസ്വമായ പാതകൾക്കായി തിരയുകയാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവ് വ്യാപിക്കുന്ന ട്രീ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ് സീക്വെൻസ് തിരയുന്നു പാതയുടെ ദൈർഘ്യം അല്ലെങ്കിൽ ട്രീയിന്റെ വില അല്ലെങ്കിൽ സബ് സീക്വേന്സിലെ ദൈർഘ്യം ഒപ്റ്റിമൈസ് ചെയ്യാനും അളക്കാനും നമ്മൾ ശ്രമിക്കുന്നു തുടർന്ന് ഈ ഒപ്റ്റിമൈസേഷൻ ഒരു നിയന്ത്രണത്തിന് വിധേയമായി നടക്കുന്നു നമ്മൾ പാതകൾക്കായി തിരയുമ്പോൾ നിയന്ത്രണങ്ങൾ ഗ്രാഫ് തന്നെയാണ് നൽകുന്നത് അതിനാൽ ഗ്രാഫിൽ നൽകിയിരിക്കുന്ന അരികുകൾ പാത്ത് പിന്തുടരണം ഗ്രാഫ് മാറുന്നതിനനുസരിച്ച് തിരിച്ചറിഞ്ഞ പാതയും മാറും അതുപോലെ തന്നിരിക്കുന്ന ഗ്രാഫുമായി ബന്ധപ്പെട്ട് സ്പാന്നിംഗ് ട്രീകൾ നമ്മൾ തിരയുന്നു ഓരോ ഗ്രാഫിലും ആദ്യം പരന്നുകിടക്കുന്ന വ്യത്യസ്ത സ്പാന്നിംഗ് ട്രീകളെ തിരിച്ചറിയാനും അവയിൽ ഏറ്റവും ചെറിയ ചിലവ് കണ്ടെത്താനും ആവശ്യപ്പെടുന്നു അതുപോലെ രണ്ട് സബ് സീക്വൻസുകൾ ഉപയോഗിച്ച് ശ്രേണിയിലെ യഥാർത്ഥ അക്ഷരങ്ങൾ അവയ്ക്കിടയിൽ പൊതുവായുള്ളത് നിർണ്ണയിക്കുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നതിന്റെ ഫ്രെയിംവർക്ക് അത്തരം നിയന്ത്രണ ഒപ്റ്റിമൈസേഷൻ പ്രശ്നങ്ങളുടെ ഒരു നോഡ് പൊതുവായ രൂപീകരണം നമുക്ക് നോക്കാം ലീനിയർ പ്രോഗ്രാമിംഗിൽ നമുക്ക് ചില വേരിയബിളുകൾ നൽകിയിട്ടുണ്ട് ചില അളവുകൾ കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് ഈ അളവുകളെ നിയന്ത്രിക്കുന്ന ചില ലീനിയർ ഫംഗ്ഷനുകളും ഉണ്ട് അതിനാൽ ഒരു വേരിയബിൾ x നെ ലീനിയർ ഫംഗ്ഷൻ ഓർമ്മിക്കുക എന്നത് x പ്ലസ് ബി രൂപത്തിന്റെ ഒന്നാണ് ഇതിന് x സ്ക്വയർ എക്സ് ക്യൂബ് ടേം ഇല്ല എല്ലാം ലീനിയർ ആണ് അതിനാൽ നമുക്ക് a x പ്ലസ് b ഉണ്ട് പൊതുവേ നമുക്ക് x y z എന്ന ഒന്നിലധികം വേരിയബിളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് a x പ്ലസ് ബി y പ്ലസ് മറ്റെന്ത്കിലും എന്ന രൂപത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരിക്കാം ചിലത് ചില സ്ഥിരാങ്കങ്ങൾക്ക് തുല്യമാണ് അല്ലെങ്കിൽ a എക്സ് പ്ലസ് ബി വൈ പ്ലസ് ചിലത് ചില സ്ഥിരാങ്കങ്ങൾക്ക് തുല്യമാണ് എന്നിട്ട് ഇവ വേരിയബിളുകൾക്ക് എടുക്കാവുന്ന മൂല്യങ്ങളുടെ പരിമിതികളാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം കുറച്ച് അളവ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില തൂക്കങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കുറയ്ക്കാനോ വർദ്ധിപ്പിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നു ഒപ്പം ആ അളവ് വേരിയബിളിനെ അടിസ്ഥാനമാക്കി മറ്റൊരു ലീനിയർ ഫംഗ്ഷനിലൂടെ പ്രകടിപ്പിക്കുന്നു നമുക്ക് ചില ഫംഗ്ഷനുകൾ ഉണ്ട് അത് ഞാൻ വീണ്ടും a x പ്ലസ് b y ആയി എഴുതുന്നു പക്ഷേ ഇത് പരസ്പരം പരിമിതികൾക്കും ഒബ്ജക്ടീവ് ഫംഗ്ഷനുമായി വ്യത്യസ്തമായ ഗുണകങ്ങളുടെ ഒരു കൂട്ടമാണ് അതിനാൽ നമുക്ക് മറ്റൊരു ലീനിയർ ഫംഗ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്താണെന്ന് പറയുന്നു ആരംഭിക്കുന്നതിനുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് മനസിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഉദാഹരണം നോക്കുക എന്നതാണ് നമ്മൾ ഗംഭീരമായ മധുരപലഹാരങ്ങൾ എന്ന പേരിൽ ഒരു മധുരപലഹാരശാല നടത്തുകയാണെന്നും രണ്ട് തരം മധുരപലഹാരങ്ങൾ വിൽക്കാൻ പറയുന്നുവെന്നും കരുതുക ബാർഫിസ് ഹൽവ എന്നിവ ഇപ്പോൾ ബാർഫിസിന്റെ ഓരോ ബോക്സും 100 രൂപയും ഹൽവയുടെ ഓരോ ബോക്സും 600 രൂപ ലാഭവും നേടുന്നുവെന്ന് നമുക്കറിയാം വ്യക്തമായും ബാർഫികളേക്കാൾ കൂടുതൽ ഹൽവ ഉണ്ടാക്കുന്നതിൽ അർത്ഥമുണ്ട് ഒരു പ്രത്യേക ദിവസത്തിൽ നമുക്ക് 200 ലധികം ബാർഫി ബോക്സുകൾ വിൽക്കാൻ കഴിയില്ലെന്നും 300 ലധികം ഹൽവ ബോക്സുകൾ വിൽക്കാൻ കഴിയില്ലെന്നും സ്റ്റാഫിന് ഒരുമിച്ച് 400 ബോക്സുകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ എന്നും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ 400 ബോക്സുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് 300 ഹൽവ 200 ബാർഫിസ് മാത്രമേ വിൽക്കാൻ കഴിയൂ അതിനാൽ നമ്മൾ രണ്ടും നിർമ്മിക്കേണ്ടതുണ്ട് ബാർഫികളുടെയും ഹൽവയുടെയും സംയോജനം എന്തായിരിക്കണമെന്ന് ഈ പരിമിതികൾ ചോദ്യം നൽകുന്നു നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന വേരിയബിളുകൾ തിരിച്ചറിഞ്ഞ് ആരംഭിക്കാം ഈ മധുരപലഹാരങ്ങളുടെ ദൈനംദിന ഉൽപാദനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിനാൽ ഒരു ദിവസം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ബാർഫിസിന്റെയും ഹൽവയുടെയും ബോക്സുകളുടെ എണ്ണം സൂചിപ്പിക്കാൻ b h എന്നീ രണ്ട് വേരിയബിളുകൾ ഉപയോഗിക്കും ഇപ്പോൾ ഇത് കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ലാഭം ഒരു ബോക്സ് ബാർഫിസിന് 100 രൂപയും ഹാൽവ ബോക്സിന് 600 രൂപയുമാണെന്ന് നമുക്കറിയാം ഇത് പൂർണ്ണമായും 100 ബി പ്ലസ് 600 എച്ച് ആണ് നമുക്ക് എത്രമാത്രം വിൽക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളും നമ്മുടെ പക്കലുണ്ട് അതിനാൽ ഒരു ദിവസം 200 ബോക്സിൽ കൂടുതൽ ബാർഫി വിൽക്കാൻ നമുക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം b 200 ൽ കുറവോ തുല്യമോ ആയിരിക്കണം കൂടാതെ ഒരു ദിവസം 300 ബോക്സിൽ കൂടുതൽ ഹൽവ വിൽക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ h 300 ൽ കുറവോ തുല്യമോ ആയിരിക്കണം അവസാനമായി നമ്മുടെ സ്റ്റാഫുകൾ ബാർഫിയോ ഹൽവയോ ഏതെങ്കിലും കോമ്പിനേഷനാണെങ്കിലും ഒരുമിച്ച് 400 ബോക്സുകൾ ഉൽപാദിപ്പിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു തീർച്ചയായും നമുക്ക് പൂജ്യമല്ലാത്ത അളവിലുള്ള ബാർഫിസ് മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ അതിനാൽ നമുക്ക് മൈനസ് 7 ബോക്സ് ബാർഫികൾ നിർമ്മിക്കാൻ കഴിയില്ല നമുക്ക് ഈ വ്യക്തമായ പരിമിതികളുണ്ട് b ഉം h ഉം പൂജ്യത്തേക്കാൾ വലുതായിരിക്കണം എന്ന് പറയുന്നു ഇപ്പോൾ നമുക്ക് ഇവയെല്ലാം ഒരു കൂട്ടം അസമത്വങ്ങളാക്കി ഒരു വസ്തുനിഷ്ഠമായ പ്രവർത്തനമാക്കി അതിനെ ഒരു ലീനിയർ പ്രോഗ്രാം എന്ന് വിളിക്കാം നമ്മുടെ ലക്ഷ്യം ലാഭം വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനാൽ ഇതാണ് ലാഭം ഇതാണ് നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കാൻ പോകുന്നത് അളവ് 100 ബി പ്ലസ് 600 എച്ച് നമുക്ക് വ്യക്തമായി തിരഞ്ഞെടുക്കാൻ കഴിയില്ല ബി എച്ച് എന്നിവ വ്യത്യാസപ്പെടാമെങ്കിൽ നമുക്ക് അവ ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാം പക്ഷേ ഈ പരിമിതികളുണ്ട് b h എന്നിവ യഥാക്രമം 0 നും 200 നും 0 നും 300 നും ഇടയിലായിരിക്കണം അവ ഒരുമിച്ച് 400 ൽ കൂടുതലാകരുത് മുൻ പേജിൽ നമ്മൾ എഴുതിയ പരിമിതികളാണിത് ഇപ്പോൾ നമ്മൾ അവ എഴുതുകയാണ് സിസ്റ്റം സമവാക്യങ്ങൾ അസമത്വങ്ങളാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിയും കാരണം അടിസ്ഥാനപരമായി b h എന്നീ രണ്ട് അളവുകൾ നമ്മൾ കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല അവയെക്കുറിച്ചുള്ള ഒരു കൂട്ടം വസ്തുതകൾ നമുക്ക് നൽകുകയും ചെയ്യുന്നു b 0 നും 200 നും ഇടയിലാണെന്ന് നമുക്കറിയാം അതിനാൽ b യുടെ പരിധി ഈ പ്രദേശത്തെ എന്തും ആണ് അതേസമയം എഡ്ജ് 0 നും 300 നും ഇടയിലാണെന്നും നമുക്കറിയാം അതിനാൽ ഇത് ഈ വലതുവശത്തേക്ക് നോക്കാവുന്ന സ്ഥലത്തെ നിയന്ത്രിക്കുന്നു സമയം കാണുക 0530 അവസാനമായി ബി പ്ലസ് എച്ച് ഒരുമിച്ച് 400 ൽ കുറവായിരിക്കണം എന്ന മറ്റൊരു പരിമിതി നമുക്കുണ്ട് ഇപ്പോൾ ഈ വരികളുടെ ഈ വശമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ b c യുടെ ഈ വശത്ത് ആയിരിക്കണം മൊത്തത്തിൽ ഇത് നമുക്ക് ഫീസിബിൽ രീജിയെൻ എന്ന് വിളിക്കാൻ കഴിയും ഈ പ്രദേശത്തെ ഏത് പോയിന്റും b മൂല്യത്തിന്റെയും h മൂല്യത്തിന്റെയും സംയോജനത്തെ പ്രതിനിധീകരിക്കുന്നു അതായത് എല്ലാ പരിമിതികളും ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യം 100 ബി പ്ലസ് 600 എച്ച് ആണ് കൂടാതെ ബി എച്ച് എന്നിവ തിരഞ്ഞെടുക്കുന്ന മൂല്യങ്ങളെ ആശ്രയിച്ച് ഇത് ആകെ സി ക്ക് തുല്യമായിരിക്കും ഇത് സി യുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ നമ്മുടെ ലാഭം 60000 ആയി സജ്ജമാക്കുകയാണെങ്കിൽ ഈ വരിയിലെ ഏത് അളവും ഓറഞ്ച് പ്രായോഗിക മേഖലയ്ക്കുള്ളിലെ ബി എച്ച് എന്നിവയുടെ ഏതെങ്കിലും മൂല്യം നമുക്ക് 60000 നൽകും ഈ പോയിന്റുകളെല്ലാം നമുക്ക് 100 ബി പ്ലസ് 600 എച്ച് 60000 ന് തുല്യമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുടനീളം ഞാൻ ഈ ലൈൻ നീക്കുകയാണെങ്കിൽ മൂല്യം മാറുന്നു ഞാൻ ഇത് കൂടുതൽ നീക്കുകയോ 60000 ൽ നിന്ന് 120000 വരെ പോകുകയോ ചെയ്യാം ഞാൻ ഇത് ഇനിയും നീക്കിയാൽ എനിക്ക് ഒരു ലക്ഷവും 50000 ലഭിക്കും ആ വരി യഥാർത്ഥത്തിൽ പ്രദേശം വിടുമ്പോൾ ആ കോണിലുള്ള ശീർഷകത്തിൽ പിസിഎം വളയുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് 1 ലക്ഷം 90000 ലഭിക്കുമെന്ന് നമ്മൾ കണ്ടെത്തുന്നു ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും അനുയോജ്യമായ മൂല്യമായി മാറുന്നു ഇപ്പോൾ ഈ ഒപ്റ്റിമൽ മൂല്യം ഈ പിസിഎമ്മിന്റെ ഏതെങ്കിലും കോണിൽ സംഭവിക്കുന്നു ഇത് പൊതുവെ സംഭവിക്കുന്നു ഒപ്റ്റിമൽ മൂല്യം എല്ലായ്പ്പോഴും ഒരു ശീർഷകത്തിൽ സംഭവിക്കുമെന്ന് ഒരാൾക്ക് വാദിക്കാം കാരണം നമ്മൾ ഇവിടെ വരി ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും സാധ്യമായ മേഖലയിലുടനീളം നീങ്ങുമ്പോൾ മൂല്യം വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യും ഇതുവരെ പ്രദേശം വിട്ടുപോകുന്നിടത്ത് ഇത് ചില ശീർഷകങ്ങളായിരിക്കും ഇപ്പോൾ ഇതിന് സമാന്തരമായിരുന്ന ഈ ഒപ്റ്റിമൽ ലൈനിനെ ഊഹിക്കുക ഈ ശീർഷകവും ഈ ശീർഷകവും രണ്ടും ഒരുപക്ഷേ ഒപ്റ്റിമൽ ആയിരിക്കാം മാത്രമല്ല ഈ വരിയുടെ എല്ലാ പോയിന്റുകളും അതിനാൽ വേര്ടിസെസിൽ നിന്ന് ഒപ്റ്റിമൽ മൂല്യങ്ങളില്ലെന്ന് ഇത് പറയുന്നില്ല പക്ഷേ തീർച്ചയായും ഒപ്റ്റിമൽ മൂല്യമുള്ള ചില ശീർഷകങ്ങൾ ഉണ്ടാകും അതിനാൽ നമ്മുടെ ലക്ഷ്യം ഒപ്റ്റിമൽ പരിഹാരം കണ്ടെത്തുക മാത്രമാണ് വെർട്ടീസുകൾ നോക്കിയാൽ മതി വാസ്തവത്തിൽ വളരെ പ്രസിദ്ധമായ ലളിതമായ സിംപ്ലക്സ് അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇത് എന്താണ് ചെയ്യുന്നതെന്നാൽ പരിമിതികളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രായോഗിക മേഖല നിർമ്മിക്കുകയും തുടർന്ന് അത് ഒരു വെർടെക്സ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്യില്ല എന്നാൽ നിങ്ങൾ ഒരു കോർനറിനെ കുറിച്ചുള്ള ഈ ആശയം സാമാന്യവൽക്കരിക്കേണ്ടതുണ്ട് രണ്ട് തലങ്ങളിൽ ഒരു വെർടെക്സ് എന്താണെന്ന് ഊഹിക്കാൻ എളുപ്പമാണ് പക്ഷേ നമുക്ക് ഒന്നിലധികം പരിമിതികളുണ്ട് രണ്ട് അളവുകളിൽ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ വെർടെക്സ് ശരിയായി നിർവചിക്കേണ്ടതുണ്ട് എന്നാൽ അവബോധപൂർവ്വം ഒരു വെർടെക്സ് ഈ പ്രായോഗിക മേഖലയുടെ ഒരു കോർണറാണ് നമ്മൾ ഈ വെർടിസെസ്സിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ആരംഭിക്കുന്നു ഒബ്ജക്ടീവ് ഫംഗ്ഷൻ വിലയിരുത്തുന്നു തുടർന്ന് നമ്മൾ അയൽ വെർടെക്സുകളിലേക്ക് നോക്കുന്നു അടുത്തുള്ള ഏതെങ്കിലും വെർടെക്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും അയൽക്കാരന് നമ്മൾ ആ അയൽക്കാരനിലേക്ക് മാറുന്നതിനേക്കാൾ മികച്ച മൂല്യമുണ്ട് നമ്മുടെ അയൽക്കാരാരും നമ്മളെക്കാൾ മികച്ചവരല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം തിരിയുന്നു തുടർന്ന് നമ്മൾ നിർത്തിയിട്ട് ഈ വെർടെക്സ് ഒപ്റ്റിമൽ ആണെന്ന് പ്രഖ്യാപിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിലെ ഒരു തെളിവിലേക്ക് നമ്മൾ പോകില്ല ഇത് യഥാർത്ഥത്തിൽ ശരിയാണെങ്കിൽ പക്ഷേ ഇത് വാദിക്കാൻ പ്രയാസമില്ല തീർച്ചയായും സിംപ്ലക്സ് ശരിയായി നടപ്പിലാക്കുന്നതിന് വളരെയധികം വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് സിംപ്ലക്സ് സൈദ്ധാന്തികമായി പ്രശ്നങ്ങളിൽ ഒന്ന് എക്സ്പോണൻഷ്യൽ ആകാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ലീനിയർ പ്രോഗ്രാമുകൾ പരിഹരിക്കുന്നതിന് വളരെ ഫലപ്രദമായ അൽഗോരിതം ആയി മാറുന്നു ഇപ്പോൾ സൈദ്ധാന്തികമായി കാര്യക്ഷമമായ അൽഗോരിതം ഉണ്ട് അതിനാൽ ലീനിയർ പ്രോഗ്രാമിംഗിനായി ഒരു പോളിനോമിയൽ ടൈം അൽഗോരിതം ഉണ്ട് ഇവയെ ഇന്റീരിയർ പോയിന്റ് രീതികൾ എന്ന് വിളിക്കപ്പെടുന്നു കൂടാതെ നരേന്ദ്ര കർമാർക്കർ കാരണം ഒരു രീതി ഉണ്ട് പലരും കേട്ടിരിക്കാം ഇവ വിവരിക്കുന്നതിനും പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനും കൂടുതൽ സങ്കീർണ്ണമാണ് ഒരുപക്ഷേ സിംപ്ലക്സ് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അറിയേണ്ടത് നിങ്ങൾ ലീനിയർ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ച് ഒരു കൂട്ടം നിയന്ത്രണങ്ങളും വസ്തുനിഷ്ഠമായ പ്രവർത്തനവും സജ്ജീകരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യക്ഷമമായി പരിഹരിക്കാനാകും തീർച്ചയായും ഒരു പരിഹാരം നിലനിൽക്കുമ്പോൾ നിങ്ങളും കടക്കും അതിനാൽ നമ്മുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ സാധ്യമായ ഒരു പ്രദേശം ഉണ്ടായിരുന്നു അത് ഇതുപോലുള്ള ഒരു ട്രപീസിയം പോലെ കാണപ്പെടുന്നു ആദ്യത്തെ പോയിന്റ് സാധ്യമായ പ്രദേശം ഇതിനകം തന്നെ കോൺവെക്സായിരിക്കും കോൺവെക്സ് എന്നതിനർത്ഥം നിങ്ങൾ പ്രദേശത്തിനകത്ത് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ എടുക്കുകയും അവയെ ഒരു വരിയിലൂടെ ബന്ധിപ്പിക്കുകയും ചെയ്താൽ മുഴുവൻ വരിയും പ്രദേശത്ത് തന്നെ തുടരും ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലെ കാണപ്പെടുന്ന ഒരു ആകൃതി ഉണ്ടെങ്കിൽ ഇത് കുത്തനെയല്ല കാരണം എനിക്ക് രണ്ട് പോയിന്റുകൾ ഉള്ളിലേക്ക് തിരഞ്ഞെടുക്കാനും പിന്നീട് ഒരു വരിയിലൂടെ ബന്ധിപ്പിക്കാനും കഴിയും ഈ ഭാഗത്തെ ഈ വരി ഈ പ്രദേശം വിടുന്നു സാധ്യമായ ഇടം എല്ലായ്പ്പോഴും കുത്തനെയുള്ളതായിരിക്കും പക്ഷേ അത് ശൂന്യമായിരിക്കാം എല്ലാം ഈ ലൈനിന് താഴെയായിരിക്കണം എന്ന് പറയുന്ന ഒരു മുൻ കാര്യത്തിൽ നമുക്ക് ഒരു അധിക പരിമിതി ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ ഓറഞ്ചിന് പുറമേ എനിക്ക് ഈ നീലനിറം ഉണ്ടെങ്കിൽ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല അതിനാൽ നിയന്ത്രണങ്ങൾ തൃപ്തികരമല്ല സാധ്യമായ പ്രദേശം ശൂന്യമായിത്തീരുന്നു പരിഹാരങ്ങളൊന്നും ഉണ്ടാകില്ല മറ്റൊരു സാധ്യത നമ്മൾ അതിനെ വേണ്ടത്ര പരിമിതപ്പെടുത്തുന്നില്ല അതിനാൽ നമ്മൾ ആരംഭിച്ചുവെന്ന് കരുതുക ഉദാഹരണത്തിന് h 300 ൽ കുറവായിരിക്കണം എന്ന് മാത്രമേ പറയൂ അതിന് അതിരുകളില്ലാത്ത ഒരു പ്രദേശമുണ്ട് ഞാൻ മുമ്പ് ചെയ്തതുപോലെ എന്റെ നീല വര വരയ്ക്കുകയും അത് മുകളിലേക്ക് നീക്കുകയും ചെയ്യുമ്പോൾ ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇത് പറയുന്നു ഒരു അപ്പർ പോയിന്റു ഇല്ല അതിനാൽ സാധ്യമായ പ്രദേശം ശൂന്യമോ അതിരുകളില്ലാത്തതോ ആയ ഈ പാത്തോളജിക്കൽ കേസുകളുണ്ട് അവിടെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല എന്നാൽ അതിർത്തിയാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ സിദ്ധാന്തം നമ്മോട് പറയുന്നത് വസ്തുനിഷ്ഠമായ പ്രവർത്തനം കിടക്കുമെന്ന് അത് പരമാവധി അല്ലെങ്കിൽ കുറഞ്ഞത് ആ അതിർത്തി പ്രദേശത്തിന്റെ അതിർത്തിയിലുള്ള ഒരു വെർട്ടെക്സിൽ കിടക്കും അതിനാൽ അവ പരിശോധിക്കാൻ പര്യാപ്തമാണ് അതാണ് സിംപ്ലക്സ് ചെയ്യുന്നത് ഇതിൽ അൽപ്പം കൂടുതൽ പരിശീലനം നേടുന്നതിന് നമുക്ക് ഉദാഹരണം വിപുലീകരിക്കാം ഇപ്പോൾ നമ്മുടെ ബർഫിക്കും ഹൽവയ്ക്കും പുറമേ ബർഫികൾക്ക് 100 രൂപയുടെ ലാഭത്തിന് മുമ്പ് 600 ഹൽവയ്ക്ക് നമ്മൾ ബദാം റാസ്മലായി ചേർത്തു ഇത് നമുക്ക് 1300 ന്റെ ഉയർന്ന ലാഭം നൽകുന്നു ഒരു ബദാം റാസ്മലൈ യഥാർത്ഥത്തിൽ ആളുകൾ പരിധിയില്ലാത്ത അളവിൽ വാങ്ങാൻ തയ്യാറാണ് അതിനാൽ ബർഫികൾക്കും ഹൽവകൾക്കുമുള്ള മുമ്പത്തെ ആവശ്യം 200 ഉം 300 ഉം തുല്യമാണ് പക്ഷേ ബദാം റാസ്മലൈ പരിധിയില്ലാത്ത അളവിൽ വിൽക്കാൻ കഴിയും നിർഭാഗ്യവശാൽ നമുക്ക് പുതിയ സ്റ്റാഫുകളൊന്നും ലഭിച്ചിട്ടില്ല അതിനാൽ ആകെ 400 ബോക്സുകൾ നിർമ്മിക്കുന്നതിൽ നമ്മൾ ഇപ്പോഴും പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരു അധിക പരിമിതി ഉണ്ട് അത് നമുക്ക് ലഭിക്കുന്ന പാലിൽ എന്തുചെയ്യാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനാൽ നമുക്ക് ലഭിക്കുന്ന പാൽ ഉപയോഗിച്ച് നമുക്ക് ഒരു ദിവസം 600 ബോക്സ് ഹൽവ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു രസ്മലൈ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും കോമ്പിനേഷൻ ആഗ്രഹിക്കുന്നു ഫലപ്രദമായി ഒരു ബോക്സ് റാസ്മലൈക്ക് ഒരു ബോക്സ് ഹൽവയേക്കാൾ മൂന്നിരട്ടി പാൽ ആവശ്യമാണ് ഇപ്പോൾ ഈ പരിമിതികൾ വീണ്ടും നൽകിയാൽ നമ്മുടെ സ്വീറ്റ് ഷോപ്പിൽ തയ്യാറാക്കേണ്ട ഏറ്റവും മികച്ച ഉൽപാദന ഷെഡ്യൂൾ ഏതെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇപ്പോൾ സമവാക്യം നോക്കുകയാണെങ്കിൽ ഒബ്ജക്ടീവ് ഫംഗ്ഷന് ഇപ്പോൾ ഒരു അധിക അളവ് ഉണ്ട് അത് റാസ്മലൈയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭമാണ് നമുക്ക് ഒരു അധിക വേരിയബിൾ ഉണ്ട് നമുക്ക് ബി എച്ച് എന്നിവയുണ്ട് അവ ബർഫിക്കും ഹൽവയ്ക്കും റാസ്മലൈക്ക് മുമ്പും ഉള്ളതിനാൽ ബർഫിക്ക് ഒരു ബോക്സിന് 100 രൂപയും ഹൽവയുടെ ഒരു ബോക്സിനു 600 രൂപയും റാസ്മലൈക്ക് 1300 രൂപയും ലഭിക്കും ബർഫിയുടെയും ഹൽവയുടെയും ഡിമാൻഡുകളുടെ പരിമിതികളും രസ്മലയ്ക്ക് ഒരു തടസ്സവുമില്ല അതിനാൽ നമ്മൾ അവിടെ ഒന്നും ചേർക്കുന്നില്ല മൊത്തം ഉൽപാദനത്തിൽ ഇപ്പോൾ റാസ്മലൈ ഉൾപ്പെടുന്നു അതിനാൽ ഇവ മൂന്നും നീല 400 ആയിരിക്കണം ഇത് പാൽ പരിമിതി പ്രകടിപ്പിക്കുന്നു ഇത് അങ്ങേയറ്റമാണ് എനിക്ക് ഹൽവയുടെ 600 ബോക്സുകൾ നിർമ്മിക്കാൻ കഴിയും മറ്റേ അറ്റത്ത് എനിക്ക് 200 ബോക്സ് റാസ്മലൈ ഉണ്ടാക്കാൻ കഴിയും കാരണം 200 രൂപ 600 രൂപയ്ക്ക് പകരം വയ്ക്കുന്നു പക്ഷേ എനിക്ക് ഏത് കോമ്പിനേഷനും ഉണ്ടാക്കാം അത് ഉത്പാദിപ്പിക്കാം അതേ അളവിൽ പാൽ അല്ലെങ്കിൽ അതിൽ കുറവ് ആവശ്യമാണ് അതിനാൽ എച്ച് പ്ലസ് 3 ആർ 600 ന് തുല്യമായിരിക്കണം ഇതാണ് പാൽ നിയന്ത്രണം ഒടുവിൽ തീർച്ചയായും ഈ മൂന്ന് അളവുകളും 0 ത്തിനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഒരു ത്രിമാന ജ്യാമിതീയ വസ്തുവായി മാറുന്നു കാരണം നമുക്ക് മൂന്ന് ആക്സിസുകൾ ഉണ്ട് b h ഇപ്പോൾ r എന്നിവ വെർടിക്കൽ ദിശയിൽ വരുന്നു കൂടാതെ വരികൾക്ക് പകരം ഇപ്പോൾ പരിമിതികളും ഉണ്ട് അവ ഈ പദ്ധതികളായി മാറുന്നു ഒരു പോളിഗണിനു പകരം ഇപ്പോൾ ആകുന്ന തരത്തിലുള്ളത് നമുക്ക് പോളിറ്റോപ്പ് എന്ന് വിളിക്കപ്പെടുന്നു നമുക്ക് ഒരു ത്രിമാന വസ്തു ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോണിൽ ഒപ്റ്റിമo ലഭിക്കുന്നുവെന്നും ഈ സാഹചര്യത്തിൽ നിങ്ങൾ പൂജ്യം ബർഫിസ് ഉണ്ടാക്കുന്നു നിങ്ങൾ ഒരു മുഴുവൻ തുക 300 ഹൽവയാക്കി മാറ്റുന്നു ബാക്കിയുള്ളവ റാസ്മലൈയ്ക്കായി ഉണ്ടാക്കുന്നു കൂടാതെ നിങ്ങൾക്ക് 3 ലക്ഷത്തി 10000 രൂപ ലാഭം ലഭിക്കുമെന്നും നമ്മൾ വീണ്ടും കണ്ടെത്തും ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിനാൽ ഇത് ശരിക്കും നമ്മുടെ ഏറ്റവും മികച്ച കാര്യമാണോ ഞാൻ ഇത് ചെയ്താൽ എനിക്ക് 600 ൽ 300 ലഭിക്കുന്നു എനിക്ക് ഇവിടെ നിന്ന് 1 ലക്ഷത്തി 80000 ലഭിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ലക്ഷത്തി 30000 ലഭിക്കും അങ്ങനെ നമുക്ക് 3 ലക്ഷത്തി 10000 ലഭിക്കും ഈ ഉത്തരം യഥാർത്ഥത്തിൽ മികച്ചതാണെന്ന് ഞാൻ എങ്ങനെ അറിയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന രസകരമായ ഒരു നിരീക്ഷണം ഇവിടെയുണ്ട് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ ഇവയാണ് b h r എന്നീ മൂന്ന് മൂല്യങ്ങൾ പൂജ്യത്തേക്കാൾ വലുതാണെന്ന് പറയുന്ന ഒന്ന് നമ്മൾ നീക്കംചെയ്തു കാരണം അത് ഉപയോഗപ്രദമല്ല ഇപ്പോൾ എ ബി സി എന്ന് ലേബൽ ചെയ്തിട്ടുള്ള മൂന്ന് നിയന്ത്രണങ്ങൾ ഞാൻ എടുക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ പൊതുവായി ഞാൻ ഒരു നിയന്ത്രണം എടുക്കുകയും ഗുണിക്കുകയും ചെയ്താൽ 2 മണിക്കൂർ 600 ന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ സിമ്പിൾ അൽജിബ്രായിൽ നിന്ന് നമുക്കറിയാം h എന്നത് 300 ന് തുല്യമായതിനേക്കാൾ തുല്യമാണ് എനിക്ക് ഗുണിക്കാൻ കഴിയുന്ന അതേ രീതിയിൽ ഇത് ഒരു സ്ഥിരാങ്കത്തിന്റെ പരിമിതിയാണ് ഞാൻ പുറത്തുവരുന്നു അതിനാൽ അവയെ സംയോജിപ്പിക്കുക എനിക്ക് എ യുടെ ചില കോമ്പിനേഷനുകളും ബി യുടെ ചില കോമ്പിനേഷനുകളും സി യുടെ ചില കോമ്പിനേഷനുകളും എടുക്കാൻ കഴിയും ഇത് നമ്മളോട് പുതിയതൊന്നും പറയുന്നില്ല നമ്മൾ അതിനെ മറ്റൊരു ഫോർമാറ്റിൽ സംയോജിപ്പിക്കുന്നു ഞാൻ ഇത് 100 തവണ എടുക്കുകയും 100 തവണ ബി എടുക്കുകയും 400 തവണ സി എടുക്കുകയും ഞാൻ അവയെ ചേർക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ എനിക്ക് 100 എച്ച് പ്ലസ് 100 എച്ച് പ്ലസ് 400 എച്ച് ചെയ്താൽ എനിക്ക് 600 എച്ച് ലഭിക്കും അപ്പോൾ എനിക്ക് 100 ബി ലഭിക്കും ഒടുവിൽ എനിക്ക് 1200 പ്ലസ് 100 ലഭിക്കും അത് 1300 r ആണ് എ ബി സി എന്നിവ ഈ കോമ്പിനേഷനുമായി കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ ഞാൻ A 100 കൊണ്ട് B 100 കൊണ്ട് C 400 കൊണ്ടും ഗുണിച്ചാൽ ഞാൻ ചില പുതിയ അസമത്വം സൃഷ്ടിക്കുന്നു പക്ഷേ ഈ പുതിയ അസമത്വം രസകരമായ ഒരു കാര്യം നമ്മോട് പറയുന്നു കാരണം വാസ്തവത്തിൽ നമുക്ക് ഇടതുവശത്ത് ഉള്ളത് നമ്മുടെ ലാഭമാണ് ലാഭം കൃത്യമായി 100 ബി പ്ലസ് 600 എച്ച് 1300 ആർ ആണ് നമ്മൾ ഇത് പരമാവധിയാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പരിമിതികൾ നിങ്ങളോട് പറയുന്നത് സാധ്യമായ പ്രദേശത്ത് feasible region ഈ മൂല്യം മൂന്നിൽ കൂടരുത് സമയം കാണുക 1605 3 ലക്ഷം 10000 ആയിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒപ്റ്റിമൽ ലാഭമാണ് കാരണം നമ്മുടെ പരിമിതികളിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതലായി ഒന്നും നേടാനാവില്ല എന്ന വസ്തുത നമുക്ക് നേടാനാകും ഇത് ഒരു ഒപ്റ്റിമൽ മൂല്യമായിരിക്കണം ഈ പ്രത്യേക ഉദാഹരണത്തിൽ ആ പരിമിതിയിൽ സമർത്ഥമായ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു മികച്ച നേട്ടം കൈവരിച്ചുവെന്ന് സ്വയം തെളിയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഭാഗ്യവശാൽ ഇത് യാദൃശ്ചികമല്ലെന്ന് മാറുന്നു നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത്തരമൊരു കോമ്പിനേഷൻ നിർമ്മിക്കാൻ കഴിയുമെന്നതായി ഇത് മാറുന്നു എന്റെ നിയന്ത്രണങ്ങളായ സി 1 സി 2 ഉണ്ടെങ്കിൽ ഇവയാണ് എന്റെ നിയന്ത്രണ സമവാക്യങ്ങൾ എനിക്ക് എല്ലായ്പ്പോഴും ചില കോമ്പിനേഷനുകൾ കണ്ടെത്താനാകും എനിക്ക് കുറച്ച് ലാംഡ 1 സി 1 ലാംഡ 2 സി 2 എടുക്കാം എനിക്ക് ഇവ ചേർക്കാൻ കഴിയും തുടർന്ന് അതിൽ നിന്നും മുകളിൽ നിന്നും നേടാൻ കഴിയും മാത്രമല്ല അപ്പർ ബൌണ്ട് എന്നോട് പറയും ഞാൻ കണ്ടെത്തിയ പരിഹാരം ശരിയല്ലേ എന്ന് അതിനാൽ ഇതിനെ എൽപി യുടെ ഡ്യുവൽ എന്ന് വിളിക്കുന്നു വീണ്ടും നമ്മൾ ഈ സിദ്ധാന്തത്തിലേക്ക് പോകാൻ പോകുന്നില്ല പക്ഷേ എൽപിക്കായി ആരംഭിക്കുന്ന ഫോർമുലേഷൻ നമുക്ക് എടുക്കാമെന്നും ചില ലീനിയർ മൾട്ടിപ്ലയറുകളുമായി പരിമിതികൾ സംയോജിപ്പിച്ച് നമുക്ക് നേടാനാകുന്ന ഏറ്റവും കുറഞ്ഞ മൂല്യം എന്താണ് എന്ന് നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാൻ കഴിയും നമുക്ക് ഈ വേരിയബിളായ പുതിയ വേരിയബിളുകൾ ലഭിക്കും ലാംഡ 1 മുതൽ ലാംഡ കെ വരെ ഉള്ള മൂല്യങ്ങൾ ഇവ കുറക്കുന്ന ലാംഡ 1 സി 1 പ്ലസ് ലാംഡ 2 സി 2 പ്ലസ് ലാംഡ കെ സി കെ കോമ്പിനേഷനുകൾ എന്തൊക്കെയാണ് ഇത് എന്റെ പുതിയ ചോദ്യമാണ് ഇത് കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മറ്റൊരു എൽപി പ്രശ്നമായി തീരുന്നു ഒപ്പം ഡ്യുവലിനും ഒറിജിനലിനും ഒരു പരിഹാരമുണ്ടെങ്കിൽ മാത്രമേ ആ പരിഹാരം രണ്ടിനും അനുയോജ്യമാകൂ എന്ന് ഞാൻ പരിഹരിക്കുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രശ്നം ശരിയായി പരിഹരിച്ചതായി ന്യായീകരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇത് നൽകുന്നു